കോണിക് സെക്ഷൻസ് I എല്ലാവർക്കും സ്വാഗതം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കുറിച്ചുള്ള നമ്മുടെ എൻ എൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം ഞാൻ ഐഐടി ഖരഗ്പൂരിലെ രാജരാം ലക്കരാജു നമ്മൾ ലെക്ചർ നമ്പർ 7 ലാണ് നില്കുന്നത് 1 മുതൽ 6 വരെയുള്ള പ്രഭാഷണത്തിൽ സ്കെയിലുകളും മറ്റ് കാര്യങ്ങളും പോലുള്ള എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് അടിസ്ഥാനകാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു പ്രഭാഷണം 7 മുതൽ 18 വരെ നമ്മൾ ജ്യാമിതി നിർമ്മാണങ്ങളും കോണിക് വിഭാഗങ്ങളും ഉൾകൊള്ളിക്കുന്നു നമ്മുടെ പാഠപുസ്തകങ്ങൾ എൻ ഭട്ട് ന്റെതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോണിക് വിഭാഗങ്ങളെ കുറിച്ച് പഠിക്കും ഈ വളവുകൾ എങ്ങനെ നിർമ്മിക്കാം എന്നും പഠിക്കും ചിത്രങ്ങൾ വരയ്ക്കാൻ പ്രൊട്ടക്ടറുകൾ കോമ്പസ് പെൻസിലുകൾ എന്നിവപോലുള്ള സാധാരണ ജ്യാമിതീയ നിർമ്മാണ കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ് ഈ ജ്യാമിതീയ നിർമ്മാണത്തിൽ ആദ്യം പഠിക്കേണ്ടത് ഒരു രേഖയെ എങ്ങനെ വിഭജിക്കാം എന്നതാണ് ഒരു ആർക്ക് എങ്ങനെ വിഭജിക്കാം എങ്ങനെ രേഖകൾ വരയ്ക്കാം ഒരു രേഖ എങ്ങനെ വിഭജിക്കാം എന്നൊക്കെയാണ് അതുപോലെ ഒരു കോണിനെ എങ്ങനെ വിഭജിക്കാം ഒരു കോണിൻറെ ട്രൈസെക്ഷൻ സർക്കിളുകൾ വിഭജിക്കുക മൂന്ന് പോയിന്റുകൾ നൽകിയാൽ ഈ മൂന്ന് പോയിന്റുകളിലൂടെ കടന്നുപോകുന്ന ഒരു സർക്കിൾ എങ്ങനെ നിർമ്മിക്കാം ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ ഈ സർക്കിളിലേക്ക് സാധാരണ രേഖകളും ടാൻജെന്റ് രേഖകളും എങ്ങനെ നിർമ്മിക്കാം തുടങ്ങിയവ പഠിക്കും ഒരു ബാഹ്യ പോയിന്റുണ്ടെങ്കിൽ ആ ബാഹ്യ പോയിന്റിനെ ആ സർക്കിളുമായി ഒരു ടാൻജെന്റായി എങ്ങനെ ബന്ധിപ്പിക്കും ചതുരം പെന്റഗൺ ഷഡ്ഭുജം മുതലായ പോളിഗണുകൾ എങ്ങനെ നിർമ്മിക്കാം ജ്യാമിതീയ നിർമ്മിതികളിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇവയാണ് ഇന്നത്തെ പ്രഭാഷണം 7 ൽ നമ്മൾ മൂന്ന് പോയിന്റുകൾ പരിശോധിക്കും ഒരു രേഖയോ ആർക്കോ എങ്ങനെ വിഭജിക്കാം ഒരു ലംബ രേഖ എങ്ങനെ വരയ്ക്കാം ഒരു രേഖ എങ്ങനെ വിഭജിക്കാം ഒരു രേഖയെ എങ്ങനെ വിഭജിക്കാം എന്നതാണ് ആദ്യത്തെ ലക്ഷ്യം എ ബി A B പോയിന്റുകളുള്ള എബി എന്ന രേഖ ഇവിടെയുണ്ട് ഈ രേഖയെ തുല്യ ഭാഗങ്ങളായി വിഭജിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതായത് ഞാൻ ഈ പോയിന്റിനെ O എന്ന് വിളിക്കുന്നുവെങ്കിൽ AO ദൂരവും OB ദൂരവും പരസ്പരം തുല്യമായിരിക്കണം കൂടാതെ മറ്റൊരു ലംബ രേഖയെ അടിസ്ഥാനമാക്കി നമുക്ക് ഇത് നിർമ്മിക്കേണ്ടതുണ്ട് സി മുതൽ ഡി വരെയുള്ള കോൺ 90 ഡിഗ്രിയാണ് പോയിന്റ് സി പോയിന്റ് ഡി എന്നിവ നിർമ്മിക്കുന്നതിലൂടെയും സി ഡി രേഖകൾ ചേർക്കുന്നതിലൂടെയും നമുക്ക് ഒരു വിഭജിത രേഖ സെഗ്മെന്റ് നിർമ്മിക്കാൻ കഴിയും ഈ വിഭജന രേഖ നിർമ്മിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ നമുക്ക് നോക്കാം ആദ്യ ഘട്ടം എ ബി എന്ന രേഖ വരക്കുന്നതാണ് തുടർന്ന് എ കേന്ദ്രമായി എബിയുടെ പകുതിയിൽ കൂടുതൽ ദൂരം ആരം ആയി ഉപയോഗിച്ച് ഒരു ആർക്ക് വരയ്ക്കുക എന്നതാണ് ഇതിനായി നമ്മൾ നമ്മുടെ കോമ്പസ് ഉപയോഗിക്കും അതിനാൽ ഒരുപക്ഷേ ഞാൻ ഈ ദൂരം ആരം ആയി തിരഞ്ഞെടുക്കുന്നു അത് എബിയുടെ പകുതിയിൽ കൂടുതലാണ് ഇവിടെ നിന്ന് കോമ്പസ് പയോഗിച്ച് ഒരു ആർക്ക് നിർമ്മിക്കുന്നു അടുത്തത് ബി പോയിന്റിൽ നിന്ന് അതേ ദൂരം ഉപയോഗിച്ച് ഒരു ഞാൻ ഒരു ആർക്ക് കൂടി നിർമ്മിക്കും അതുപോലെ എ ബി A B എന്നിവയിൽ നിന്ന് അതേ ദൂരത്തിൽ ഒരു ആർക്ക് കൂടി മറുവശത്ത് നിർമ്മിക്കാൻ ഞാൻ ശ്രമിക്കും അതിനാൽ ഈ ആർക്കുകൾ കൂട്ടി മുട്ടുന്നിടത്ത് നമ്മൾ ഇവക്കു പോയിൻറ് സി പോയിൻറ് ഡി എന്ന് നാമകരണം ചെയ്യുകയും ഒരു രേഖ ഉപയോഗിച്ച് ഇവയെ ചേർക്കുകയും ചെയ്യുന്നു നമ്മൾ രേഖ സിഡി നിർമ്മിച്ചുകഴിഞ്ഞാൽ അത് എബി ക്ക് ലംബമായ ഒരു രേഖയായിരിക്കും കൂടാതെ ഈ സിഡി രേഖ എബി രേഖയെ രണ്ട് തുല്യ ഭാഗങ്ങളായി വിഭജിക്കും അത് നമ്മുടെ ഡ്രോയിംഗ് ഷീറ്റിൽ നോക്കാം ഒരു ലൈൻ സെഗ്മെന്റ് നിർമ്മിക്കാൻ നമുക്ക് ഒരു സ്കെയിൽ ഉപയോഗിക്കാം നമുക്ക് A അടയാളപ്പെടുത്താം നമുക്ക് പോയിന്റ് ബി അടയാളപ്പെടുത്തി അവയെ തമ്മിൽ ചേർത്തു എ ബി A B എന്നിവ അടയാളപ്പെടുത്താം ഇപ്പോൾ എയിൽ നിന്നു കോമ്പസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യേണ്ടത് എബിയുടെ പകുതിയിൽ കൂടുതൽ ദൂരം തിരഞ്ഞെടുക്കുക എന്നതാണ് ഒരുപക്ഷേ ഏകപക്ഷീയമായി നമ്മൾ ഇത് എബി യുടെ പകുതിയിലധികം വലുതായി തിരഞ്ഞെടുക്കാൻ പോകുന്നു എ യിൽ നിന്ന് ആ വശത്ത് ഒരു ആർക്ക് വരയ്ക്കുക അതുപോലെ പോയിന്റ് ബി യിൽ നിന്നും അതേ ദൂരം ഉപയോഗിച്ച് ആദ്യത്തെ ആർക് മുറിക്കുക അതുപോലെ മറുവശത്ത് ബി കേന്ദ്രമായി മറ്റൊരു ആർക്ക് നിർമ്മിക്കുക അതുപോലെ എ വശത്ത് നിന്ന് ഒരു ആർക്ക് നിർമ്മിക്കുക അതിനാൽ ആർക്കുകൾ കൂട്ടിമുട്ടുമ്പോൾ അതിനെ നമുക്ക് സി ഡി C Dഎന്ന് വിളിക്കാം ഇപ്പോൾ സി ഡി C D എന്നീ പോയിന്റുകളിൽ ചേർക്കുക ഇവ നിർമ്മാണ രേഖകൾ പോലെയാണ് വളരെ നേരിയ രേഖകൾ അതിനാൽ വിഭജിക്കുന്ന സ്ഥലത്തെ വിഭജിക്കുന്ന പോയിന്റ് നമുക്ക് ഒ എന്ന് വിളിക്കാം അതിനാൽ എ മുതൽ ഒ വരെ 6 യൂണിറ്റും ഒ മുതൽ ബി വരെ 6 യൂണിറ്റും നമുക്ക് അളന്നു നോക്കിയാൽ ലഭിക്കും അതിനാൽ AO OB എന്നിവ തുല്യമാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റ് നോക്കാം ഒരു ആർക്ക് എങ്ങനെ വിഭജിക്കാം ഇവിടെ നമുക്ക് A മുതൽ B വരെ ഒരു ആർക്ക് ഉണ്ട് ആദ്യ പോയിന്റ് A ഉം അവസാന പോയിന്റ് B ഉം ആണ് ഈ ആർക്ക് വിഭജിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനർത്ഥം ഈ പോയിന്റ് നമുക്ക് O എന്ന് വിളിക്കാം അതായത് എഒ ആർക്ക് നീളവും ഒബി ആർക്ക് നീളവും തുല്യമായിരിക്കണം അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘട്ടങ്ങൾ നമുക്ക് നോക്കാം ആദ്യം എ കേന്ദ്ര മാക്കി എബി യുടെ പകുതിയിലധികം ദൂരം എടുക്കണം അതിനർത്ഥം പോയിന്റ് എ യും ബി യും ആർക്ക് എ ഒ ബി കു ഒപ്പം പോകുന്നു എന്നാൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് എ മുതൽ ബി വരെ ഒരു രേഖയിൽ ചേർക്കുക എന്നതാണ് അതിനാൽ എ മുതൽ ബി വരെ ആ ദൂരത്തിന്റെ പകുതിയിൽ കൂടുതൽ ദൂരം ആരം ആയി എടുക്കണം അതിനാൽ എബി യുടെ പകുതിയിൽ കൂടുതൽ ദൂരം ഉപയോഗിച്ച് നമ്മൾ ആർക്കുകൾ അടയാളപ്പെടുത്തുന്നു അതിനാൽ എ യിൽ നിന്ന് ഈ ദൂരം ആരം ആയി എടുക്കുമ്പോൾ എ യിൽ നിന്ന് ഒരു ആർക്ക് അടയാളപ്പെടുത്തുക അതുപോലെ എയിൽ നിന്ന് മറുവശത്ത് ഒരു ആർക്ക് അടയാളപ്പെടുത്തുക അതേ ആരം ഉപയോഗിച്ച് ഇതേ രീതിയിൽ ബി മധ്യമാക്കി മറ്റൊരു ആർക്ക് അടയാളപ്പെടുത്തുക അതുപോലെ മറ്റൊരു ആർക്ക് ഈ രീതിയിൽ അടയാളപ്പെടുത്തുക പോയിന്റുകൾ വിഭജിക്കുമ്പോഴെല്ലാം നമ്മൾ ഈ പോയിന്റുകളെ പോയിന്റ് സി പോയിന്റ് ഡി എന്ന് വിളിക്കുകയും അവയെ ചേർക്കുകയും ചെയ്യുന്നു ഇത് A O B ആർക്ക് മുറിക്കുന്ന പോയിന്റ് O ആണ് ഇത് രണ്ട് ആർക്കുകളെയുംവിഭജിക്കുന്ന പോയിന്റാണ് നമുക്ക് ഗ്രാഫ് ഷീറ്റ് നോക്കാം ഇപ്പോൾ നമ്മൾ ഒരു ഏകപക്ഷീയമായ പോയിന്റ് തിരഞ്ഞെടുക്കാം നമുക്ക് ഇവിടെ നിന്ന് ഒരു പോയിന്റ് അടയാളപ്പെടുത്താം നമ്മൾ ഒരു ഏകപക്ഷീയമായ ആർക്ക് നിർമ്മിക്കും നമുക്ക് ഈ പോയിന്റിനെ എ എന്ന് വിളിക്കാം മറ്റൊരു പോയിന്റിനെ ബി എന്ന് വിളിക്കാം കൂടാതെ ഈ ആർക്ക് എ മുതൽ ബി വരെ വിഭജിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ആദ്യ ഘട്ടത്തിൽ എ ബി AB പോയിന്റുകൾ ഒരു ഡാഷ് രേഖ ഉപയോഗിച്ച് ചേർക്കുക ഇപ്പോൾ എ ബി ദൂരത്തേക്കാൾ വലിയ ആരം തിരഞ്ഞെടുത്ത് എ കേന്ദ്രമാക്കി ഇരുവശത്തും ഒരു ആർക്ക് വരയ്ക്കുക അതുപോലെ മറ്റൊരു ആർക് ഉപയോഗിച്ച് യഥാർത്ഥ ആർക്ക് മുറിക്കുക അതിനാൽ ഈ പോയിന്റുകളെ സി ഡി C D എന്ന് വിളിക്കാം ഈ സി ഡി C D തമ്മിൽ ചേർക്കുക അതിനാൽ ഈ ബൈസെക്ടർ വിഭജിക്കുന്ന പോയിന്റിനെ നമുക്ക് O എന്ന് വിളിക്കാം ഈ ആർക്ക് A മുതൽ O വരെയുള്ള ദൂരം O മുതൽ B വരെയുള്ള ദൂരത്തിന് തുല്യമാണ് ഇങ്ങനെയാണ് നമ്മൾ ഒരു ആർക്ക് വിഭജിക്കുന്നത് എബി രേഖ ൽ കിടക്കുന്ന ഒരു പ്രത്യേക പോയിന്റ് കെ യിലൂടെ കടന്നുപോകുന്ന ലംബ രേഖ എങ്ങനെ വരയ്ക്കാം എന്നത് അടുത്ത ഉദാഹരണം ആയി നോക്കാം അതിനാൽ നമുക്ക് എബി എന്ന ഒരു രേഖയുണ്ട് പോയിന്റ് എ പോയിന്റ് ബി ഓഫ്സെറ്റ് എന്നിവ ഉണ്ട് ഒരു പ്രത്യേക പോയിന്റ് കെ ഉണ്ട് ഈ കെ പോയിന്റ് എ ബി AB എന്നിവയ്ക്കിടയിലായിരിക്കണമെന്നില്ല ഇത് ഒരു ഓഫ്സെറ്റ് ഇൽ ആയിരിക്കാം അതായത് കെബി യെക്കാൾ വലുതായിരിക്കും എകെ ഇപ്പോൾ ലംബമായ ഒരു ബൈസെക്ടർ നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു കെ യിലൂടെ കടന്നുപോകുന്ന ലംബ രേഖ അത് എബി യെ വിഭജിക്കാൻ പോകുന്നു അതിനാൽ ഈ കോൺ എബി ആണ് കെബി യെക്കാൾ എകെ വലുതാണ് അത് എങ്ങനെ ചെയ്യാം നമ്മൾ അത് പഠിക്കാൻ പോകുന്നു നമുക്ക് നടപടിക്രമം നോക്കാം ഒന്നാമതായി കെ പോയിന്റിൽ നിന്ന് എബി യിലേക്ക് ലംബമായി രേഖ വരയ്ക്കുക നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ ലക്ഷ്യം ഇതാണ് കെഎ യേക്കാൾ കുറവുള്ള ആരം കെപി തിരഞ്ഞെടുക്കുക എന്നതാണ് ആദ്യ പടി കെ പോയിന്റിൽ നിന്ന് മറ്റൊരു ഏകപക്ഷീയമായ പോയിന്റ് പി തിരഞ്ഞെടുക്കുക അതായത് എപി നീളം പികെ യേക്കാൾ തായിരിക്കണം അതിനാൽ ഇതുപോലുള്ള ഒന്ന് കൂടുതൽ ദൂരമാണ് അതിനാൽ കെ യിൽ നിന്ന് എകെ രേഖയിലേക്കു ഒരു ആർക്ക് അടയാളപ്പെടുത്തുക അതേ ആരം ഉപയോഗിച്ച് കെ കേന്ദ്രമായി മറ്റൊരു ആർക്ക് Q അടയാളപ്പെടുത്തുക അതിനാൽ പോയിന്റ് P മുതൽ K വരെയും K മുതൽ Q വരെയുമുള്ള നീളം തുല്യമാണ് ഇപ്പോൾ ആദ്യത്തെ തത്വം ഉപയോഗിക്കുക നമ്മൾ ചെയ്തത് ഒരു രേഖയെ വിഭജിക്കുക എന്നതാണ് കാരണം ഇപ്പോൾ പോയിന്റ് K P Q എന്നിവയെ വിഭജിക്കുന്നു ആദ്യം നമുക്ക് AB രേഖ വരയ്ക്കാം ഒരുപക്ഷേ ഇതാണ് ആ രേഖ അതിനെ ചേർക്കാം ഈ പോയിന്റിനെ A എന്ന് വിളിക്കുന്നു ഈ പോയിന്റിനെ B എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റ് കെ അടയാളപ്പെടുത്തുക ജ്യാമിതീയ നിർമ്മാണത്തിലൂടെ ലംബ രേഖ വരയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ബി ഒരു ഹ്രസ്വമായ രേഖയായതിനാൽ നമ്മൾ കെ യിൽ നിന്ന് വളരെ വലിയ ദൂരം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് അടയാളപ്പെടുത്തുമ്പോൾ അത് വിപുലീകരിക്കപ്പെടും അതിനാൽ വലിയ ദൂരം അല്ലെങ്കിൽ ചെറിയ ദൂരം നമുക്ക് എത്രത്തോളം അവശേഷിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ കെ യിൽ നിന്ന് ബി യിലേക്ക് പോകാം അത് അതിനേക്കാൾ വലിയ ദൂരം ആകുന്നു അതുപോലെ കെ യിൽ നിന്ന് ഒരേ ദൂരം എടുത്ത് ആർക്ക് അടയാളപ്പെടുത്തുക അതിനാൽ ഇത് പോയിന്റ് P ആണ് ഇത് പോയിന്റ് Q ആണ് ഇപ്പോൾ P ൽ നിന്ന് Q നേക്കാൾ വലുതും K നേക്കാൾ വലുതായതുമായ ദൂരം ഞാൻ എടുക്കണം ഇതാണ് ഞാൻ എടുത്ത് വരയ്ക്കാൻ പോകുന്ന ദൂരം ഇത് ഉപയോഗിച്ച് ഒരു ആർക്ക് വരക്കുക അതുപോലെ പോയിന്റ് Q ൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുക പോയിന്റ് അടയാളപ്പെടുത്തി കഴിഞ്ഞു Q K യിലേക്ക് ചേർക്കുക ഈ കോൺ 90 ഡിഗ്രി ആയിരിക്കും അതിനാൽ ഈ ആർക്ക് ദൈർഘ്യങ്ങൾ വരയ്ക്കുകയും ഈ പോയിന്റ് ആർ എന്ന് അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു അതിനാൽ പോയിന്റ് കെ യിലൂടെ കടന്നുപോകുന്ന ലംബമായ ഒരു രേഖ നമ്മൾ നിർമ്മിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ സെഷന്റെ മൂന്നാമത്തെ ലക്ഷ്യം എന്നത് ഒരു രേഖയെ തുല്യ ഭാഗങ്ങളായി വിഭജിക്കുക അതിനായി എബി എന്ന ഒരു രേഖയുണ്ടെന്ന് നമുക്ക് പരിഗണിക്കാം അതിനെ തുല്യ ഭാഗങ്ങളായി വിഭജിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു 1 2 3 4 5 എന്നിങ്ങനെ തുല്യ ഭാഗങ്ങളായി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു ഇത് ചെയ്യുന്നതിനുള്ള നടപടിക്രമം എബി രേഖ വരച്ചതിനുശേഷം ഒരു ചെരിഞ്ഞ രേഖ എസി വരയ്ക്കുക ഈ രേഖ എബി യുമായി ഒരുപക്ഷേ 30 ഡിഗ്രി 40 ഡിഗ്രി എന്നിങ്ങനെയുള്ള നിശിതകോശം ഉണ്ടാക്കും എസി രേഖയിൽ പോയിന്റ് 1 അടയാളപ്പെടുത്താൻ നമ്മൾ ഒരു കോമ്പസ് ഉപയോഗിക്കുന്നു എ മുതൽ 1 വരെ ഏകപക്ഷീയമായ ഒരു ആർക്ക് തിരഞ്ഞെടുക്കുക അത് കണ്ടെത്തിക്കഴിഞ്ഞു തുടർന്ന് ഇത് 1 എന്ന് അടയാളപ്പെടുത്തുക അതുപോലെ ഇതിനെ കേന്ദ്രമായി വെച്ചുകൊണ്ട് ഒരു ആർക്ക് കൂടി അടയാളപ്പെടുത്തുക ഇതിൽ നിന്ന് അതേ ദൂരമുള്ള മറ്റൊന്ന് അടയാളപ്പെടുത്തുക വീണ്ടും അതേ ദൂരമുള്ള മറ്റൊന്നിനെ അടയാളപ്പെടുത്തുക വീണ്ടും അതേ ദൂരമുള്ള മറ്റൊന്നിനെ അടയാളപ്പെടുത്തുക അത് ചെയ്തുകഴിഞ്ഞാൽ പോയിന്റ് 5നെ ബി യിലേക്ക് ചേർക്കുക അതുപോലെ നാലാമത്തെ പോയിന്റിലൂടെ കടന്നുപോകുന്നതും 3 പോയിന്റിലൂടെ കടന്നുപോകുന്നതും 2 പോയിന്റിലൂടെ കടന്നുപോകുന്നതും 1 പോയിന്റിലൂടെ കടന്നുപോകുന്നതും ആയ രേഖകൾ വരക്കുക ഈ രേഖകൾ AB എന്ന രേഖയെ തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്നു ഗ്രാഫ് ഷീറ്റിൽ അത് നോക്കാം ഒന്നാമതായി നമ്മൾ ഒരു രേഖ വരയ്ക്കണം അതിൽ എ ബി AB പോയിന്റുകൾ അടയാളപ്പെടുത്തുക പോയിന്റ് എ യിൽ നിന്ന് ഒരു ചെരിഞ്ഞ വര വരയ്ക്കുക ഇപ്പോൾ ആ രേഖയിൽ ഏകപക്ഷീയമായ ദൂരം ആരമായി തിരഞ്ഞെടുത്ത് ഈ പോയിന്റുകൾ അടയാളപ്പെടുത്തുക നമുക്ക് ഇത് അടയാളപ്പെടുത്താം ഇത് കേന്ദ്രമായി തിരഞ്ഞെടുക്കുക രണ്ടാമത്തെ പോയിന്റ് അടയാളപ്പെടുത്തുക അതുപോലെ അത് കേന്ദ്രമാക്കി മറ്റു പോയിന്ററുകൾ അടയാളപ്പെടുത്തുക അതുപോലെ നമുക്ക് 5 പോയിന്റുകൾ വേണമെങ്കിൽ നമ്മൾ 5 ആർക്കുകൾ നിർമ്മിക്കണം നമുക്ക് 1 2 3 4 5 എന്നീ പോയിന്റുകൾ ലഭിക്കുന്നു ഇപ്പോൾ ഈ അഞ്ചാമത്തെ പോയിന്റിനെ പോയിന്റ് ബി യുമായി ബന്ധിപ്പിക്കുക ഇപ്പോൾ ഈ രേഖക്ക് സമാന്തരമായി പോകണം സാധാരണയായി അത് ചെയ്യുന്നതിന് ആ ദിശയിൽ ക്രമീകരിച്ച ഒരു മിനി ഡ്രാഫ്റ്റർ നമ്മൾ ഉപയോഗിക്കുന്നു എന്നാൽ ഇവിടെ നമുക്ക് മിനി ഡ്രാഫ്റ്റർ ഇല്ല അതിനാൽ സമാന്തര ലൈനുകൾ നിർമ്മിക്കുന്നതിന് ഒന്നാമതായി ഇതിന് ലംബമായ ഒരു രേഖ നിർമ്മിക്കണം നിങ്ങളുടെ സെറ്റ് സ്ക്വയറുകൾ ശ്രദ്ധാപൂർവ്വം വിന്യസിക്കുക എന്നാൽ ഇത് ഉപയോഗിക്കുന്നതിനുള്ള ശരിയായ ഉപകരണം ഡ്രാഫ്റ്റർ ആണ് അതിനാൽ സമാന്തരമായി നമ്മൾ അത് നിർമ്മിക്കണം അതിനർത്ഥം ആ ദിശയിലുള്ള സെറ്റ് സ്ക്വയറുകളിലൊന്ന് നമ്മൾ ഇതുപോലെയായി വിന്യസിക്കണം കൂടാതെ പോയിന്റ് നമ്മുടെ പ്രത്യേക പോയിന്റുകളിലൂടെ കടന്നുപോകേണ്ടതുണ്ട് അതിനാൽ നമുക്ക് ഈ രേഖകൾ വിപുലീകരിക്കാം അതിനാൽ ഒരാൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ഡ്രാഫ്റ്റർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇത് നിർമ്മിക്കാൻ കഴിയില്ല നോൺ അലൈൻമെന്റ് ഈ രേഖകളെ വ്യത്യസ്ത ഭാഗങ്ങളായി വിഭജിക്കാം അതിനാൽ ആദ്യത്തേത് അവിടെ വിഭജിക്കുന്നു രണ്ടാമത്തേത് അവിടെ വിഭജിക്കാൻ പോകുന്നു ഇപ്പോൾ ഈ രേഖകൾ നീട്ടി ഈ പോയിന്റുകൾ അടയാളപ്പെടുത്തുക അതിനാൽ നമുക്ക് ഇതിനെ 1 പ്രൈം 2 പ്രൈം 3 പ്രൈം 4 പ്രൈം എന്ന് വിളിക്കാം അതിനാൽ A 1 പ്രൈം 1 2 പ്രൈമിന് തുല്യമാണ് 2 3 പ്രൈമിന് തുല്യമാണ് 3 4 പ്രൈമിന് തുല്യമാണ് 4 പ്രൈം ബി ക്ക് തുല്യമാണ് അതിനാൽ ഈ സമാന്തര രേഖകളുടെ നിർമ്മാണം നമ്മൾ എത്രമാത്രം ശ്രദ്ധയോടെയാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അപ്പോൾ മാത്രമേ നമുക്ക് അതിനെ 5 തുല്യ ഭാഗങ്ങളാക്കാൻ കഴിയൂ